അതിനാൽ ഞങ്ങൾ ഇതുവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടിസ്ഥാനപരമായി ഇൻഡസ്ട്രി 4 0 IIoT എന്നിവയിലെ വ്യത്യസ്ത അടിസ്ഥാന ആശയങ്ങളാണ് ഈ പ്രഭാഷണത്തിൽ IIoT യുടെ ബിസിനസ്സ് വശങ്ങൾക്ക് പിന്നിലെ ചില അടിസ്ഥാന ആശയങ്ങളിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത് ഈ കോഴ്സ് സാങ്കേതികമായി അധിഷ്ഠിതമാണെങ്കിലും സമഗ്രമായ വീക്ഷണകോണിൽ നിന്ന് നമ്മൾ കടന്നുപോകുകയാണെങ്കിൽ IIoT യുടെ ബിസിനസ്സ് വശങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് നമുക്ക് അൽപ്പം അറിവുണ്ടെങ്കിൽ പ്രത്യേകിച്ച് IIoT ആയിരിക്കണമെന്നതിനാൽ ധാരണ കൂടുതൽ വ്യക്തമാകുമെന്ന് ഞാൻ കരുതുന്നു വ്യാവസായിക ക്രമീകരണങ്ങളിൽ ഉപയോഗിക്കുന്നു അതിനുശേഷം ഞങ്ങൾ മറ്റ് പ്രഭാഷണങ്ങളിലൂടെ കടന്നുപോകും IIoT ഇൻഡസ്ട്രി 4 0 എന്നിവയുടെ സാങ്കേതികതകളുടെ കൂടുതൽ ആഴത്തിലുള്ള വശങ്ങളിലൂടെ ഞങ്ങൾ പോകും ഇനി നമുക്ക് IIoT യുടെ ചില അടിസ്ഥാന വശങ്ങൾ നോക്കാം അതിനാൽ ബിസിനസ്സ് വീക്ഷണകോണിൽ നിന്ന് വ്യത്യസ്ത ബിസിനസ്സ് മോഡലുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി ഒരു ബിസിനസ്സ് മോഡൽ എന്താണ് എന്നതാണ് ചോദ്യം അതിനാൽ ഒരു ബിസിനസ്സ് മോഡൽ അടിസ്ഥാനപരമായി അത് ഓർഗനൈസേഷൻ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നതിന് പിന്നിലെ യുക്തി ഉപഭോക്താക്കൾക്ക് അത് എങ്ങനെ മൂല്യം നൽകാൻ പോകുന്നു മൂല്യം പിടിച്ചെടുക്കൽ മൂല്യം വിതരണം ചെയ്യൽ തുടങ്ങിയ വ്യത്യസ്ത വശങ്ങൾ പിടിച്ചെടുക്കുന്നു അതിനാൽ ഒരു ബിസിനസ്സ് മോഡലിൽ പകർത്തിയിരിക്കുന്ന വ്യത്യസ്ത വശങ്ങൾ ഇവയാണ് അടിസ്ഥാനപരമായി ഈ ബിസിനസ്സ് മോഡൽ ഒരു ബിസിനസ്സിന്റെ ഓർഗനൈസേഷണൽ ഫിനാൻഷ്യൽ ആർക്കിടെക്ചറിന്റെ മൂർത്തീഭാവമാണ് അതിനാൽ ഈ മോഡലുകൾ അടിസ്ഥാനപരമായി ബിസിനസ്സ് എങ്ങനെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അതിന്റെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ അവ എങ്ങനെ നിർവഹിക്കാൻ പോകുന്നു എന്നതിന്റെ വിവരണം നൽകും ബിസിനസ്സിലേക്ക് അത് എങ്ങനെ പോകുന്നു എന്നത് വിവിധ ധനകാര്യങ്ങൾ സാമ്പത്തിക വശങ്ങൾ വ്യത്യസ്ത ലാഭം എങ്ങനെ സമ്പാദിക്കാൻ പോകുന്നു നിർദ്ദിഷ്ട വിപണിയുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെ സ്ഥാപിക്കപ്പെടും നിറവേറ്റാൻ പോകുന്നു ഇനി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ബിസിനസ്സ് മോഡലിന്റെ വ്യത്യസ്ത വശങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ മനസിലാക്കാൻ ശ്രമിക്കണം അതിനുമുമ്പ് നമ്മൾ IoT യിലും IIoT യിലും ഉപയോഗിക്കുന്നതിന് ബിസിനസ്സ് മോഡലിന്റെ വ്യത്യസ്ത വശങ്ങളിലൂടെ കടന്നുപോകും അതിനാൽ ബിസിനസ്സ് മോഡലിന്റെ വ്യത്യസ്ത വശങ്ങൾ നോക്കാൻ നമുക്ക് ശ്രമിക്കാം ഇത് ബിസിനസ്സ് മോഡൽ ആണെന്ന് നമുക്ക് അനുമാനിക്കാം ഞങ്ങൾ ബിസിനസ്സ് മോഡലിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് പരിഗണിക്കാം അതിനാൽ അതിന്റെ വ്യത്യസ്ത നിർമ്മാണ ബ്ലോക്കുകൾ എന്തൊക്കെയാണ് അതിനാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് മാർക്കറ്റ് സെഗ്മെന്റ് എന്നതാണ് ബിസിനസ്സ് നിറവേറ്റേണ്ട മാർക്കറ്റ് വിഭാഗം അപ്പോൾ മൂല്യ ശൃംഖലയുടെ ഘടന എന്താണെന്ന് മനസ്സിലാക്കണം വ്യത്യസ്ത മൂല്യ നിർദ്ദേശങ്ങൾ വരുമാനം ഉണ്ടാക്കൽ ആ വരുമാന മാതൃകയിലെ വ്യത്യസ്ത മാർജിനുകൾ എന്തൊക്കെയാണ് മൂല്യ ശൃംഖലയിലെ സ്ഥാനം എന്താണ് കൂടാതെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മത്സര തന്ത്രമാണ് അതിനാൽ ഇവ വിശാലമായി വ്യത്യസ്തമാണ് ഇവയാണ് ബിൽഡിംഗ് ബ്ലോക്കുകളുടെ വ്യത്യസ്ത വശങ്ങൾ ഏത് ബിസിനസ്സ് മോഡലിനെക്കുറിച്ചും നമുക്ക് പറയാം അതിനാൽ ഐഒടിയുടെ പശ്ചാത്തലത്തിൽ ഈ ബിസിനസ്സ് മോഡലുകൾ എങ്ങനെ മനസ്സിലാക്കണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യങ്ങളിൽ ഈ ആശയങ്ങൾ വളരെ പ്രധാനമാണ് അതിനുശേഷം അടുത്ത പ്രഭാഷണത്തിൽ IIoT യുടെ പശ്ചാത്തലത്തിലെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ചും കൂടുതൽ വ്യക്തമായി അതിനാൽ ഇത് മനസ്സിലാക്കിയ ശേഷം നമുക്ക് കുറച്ച് മുമ്പ് കണ്ട നമ്മുടെ വ്യത്യസ്ത നിർമ്മാണ ബ്ലോക്കുകളിലേക്ക് മടങ്ങാം അതിനാൽ ആദ്യത്തേത് മൂല്യനിർദ്ദേശമാണ് നമുക്ക് ആദ്യം മൂല്യനിർദ്ദേശം എടുക്കാം അതിനാൽ മൂല്യനിർണ്ണയം ഞങ്ങൾ ഉപഭോക്താക്കൾക്ക് മൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ ബിസിനസ്സ് പരിഗണിക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്തൃ വിഭാഗങ്ങൾക്ക് മൂല്യങ്ങൾ സൃഷ്ടിക്കുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഏതൊക്കെയാണ് ഈ മൂല്യങ്ങൾ വില ഉൽപ്പന്നം സേവന പ്രകടനം മുതലായവയുടെ വില വശങ്ങൾ പോലെയുള്ള അളവിലുള്ളതാകാം അല്ലെങ്കിൽ ഇഷ്ടാനുസൃതമാക്കൽ ഉപഭോക്തൃ അനുഭവം ബ്രാൻഡിംഗ് മുതലായവ പരിഗണിക്കേണ്ട ഡിസൈൻ പോലുള്ള ഗുണപരമായ സ്വഭാവമുള്ളതാകാം അതിനാൽ ഇവ അടിസ്ഥാനപരമായി മൂല്യ നിർദ്ദേശ വശങ്ങളാണ് അടുത്തത് മാർക്കറ്റ് വിഭാഗമാണ് മാർക്കറ്റ് സെഗ്മെന്റ് അടിസ്ഥാനപരമായി പരിഗണിക്കേണ്ട മാർക്കറ്റിന്റെ വിവിധ സെഗ്മെന്റുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ ബിസിനസ്സ് എന്റർപ്രൈസ് സേവിക്കാൻ ലക്ഷ്യമിടുന്ന ഉപഭോക്താക്കളുടെ വിവിധ ഗ്രൂപ്പുകൾ അന്തിമ ഉപയോക്തൃ ഓർഗനൈസേഷനുകൾ കൂടാതെ വ്യത്യസ്ത തരത്തിലുള്ള ഉപഭോക്തൃ വിഭാഗങ്ങൾ ഉണ്ടാകാം ഉദാഹരണത്തിന് ഒരു ഉപഭോക്തൃ വിഭാഗം ബഹുജന വിപണി പോലെയായിരിക്കാം മാസ് മാർക്കറ്റ് അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് മുഴുവൻ വിപണിയും അതിനാൽ പരിഗണിക്കാൻ പോകുന്ന മുഴുവൻ വിപണിയും ഉദാഹരണത്തിന് ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ഒരു ബഹുജന വിപണിയുടെ ഉദാഹരണമാണ് നിച്ച് മാർക്കറ്റ് എന്നാൽ ബിസിനസ്സ് പരിഗണിക്കുന്ന പ്രത്യേക തരം മാർക്കറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഒരു കാർ നിർമ്മാതാവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ കാർ നിർമ്മാതാവ് അടിസ്ഥാനപരമായി വ്യത്യസ്ത ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളിൽ നിന്നുള്ള വാങ്ങലുകളെ ആശ്രയിച്ചിരിക്കുന്നു അതിനുശേഷം അത് സേവിക്കാൻ പോകുന്ന മൈക്രോ മെക്കാനിക്കൽ മൈക്രോ സോറി മൈക്രോ പ്രിസിഷൻ സിസ്റ്റങ്ങൾ പോലെയുള്ള സെഗ്മെന്റഡ് കസ്റ്റമർ സെഗ്മെന്റ് അതിന്റെ വ്യത്യസ്ത ഉപഭോക്തൃ വിഭാഗങ്ങൾ ഉദാഹരണത്തിന് വാച്ച് വ്യവസായം മെഡിക്കൽ വ്യവസായം വ്യവസായ ഓട്ടോമേഷൻ മേഖലകൾ ഇവയെല്ലാം വ്യത്യസ്ത വിഭാഗത്തിലുള്ള ഉപഭോക്തൃ വിഭാഗങ്ങൾ പോലെയാണ് അതിനുശേഷം നമുക്ക് വൈവിധ്യമാർന്ന ഒന്ന് ഉണ്ട് അതിനാൽ വൈവിദ്ധ്യമാർന്ന ഉപഭോക്തൃ വിഭാഗം അർത്ഥമാക്കുന്നത് ഒരു പ്രത്യേക ബിസിനസ്സ് കുറച്ച് സമയത്തേക്ക് ഒരു പ്രത്യേക തരം ഉപഭോക്തൃ അടിത്തറയാണ് അതിനുശേഷം അവർ മറ്റൊരു തരത്തിലുള്ള ഉപഭോക്തൃ അടിത്തറയിലേക്ക് വൈവിധ്യവത്കരിക്കാൻ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് ഉദാഹരണത്തിന് കമ്പനി ആമസോൺ അതിനാൽ ആമസോൺ യഥാർത്ഥത്തിൽ പ്രാഥമികമായി ഇത് ഒരു റീട്ടെയിൽ ബിസിനസ് ഓൺലൈൻ റീട്ടെയിൽ ബിസിനസ്സ് എന്റർപ്രൈസ് ആണ് പക്ഷേ സമീപകാലത്ത് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് സേവനങ്ങൾ വിൽക്കുന്നതിലേക്ക് അതിന്റെ ബിസിനസ്സ് വൈവിധ്യവൽക്കരിച്ചു ഇത് വൈവിദ്ധ്യമാർന്ന ഉപഭോക്തൃ വിഭാഗമാണ് ഞങ്ങൾക്ക് മൾട്ടി സൈഡ് സെഗ്മെന്റുകളും ഉണ്ടായിരിക്കാം ഉദാഹരണത്തിന് നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് കമ്പനിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനി ഒരു വശത്ത് ക്രെഡിറ്റ് കാർഡ് ഉടമകളുമായും ആ ക്രെഡിറ്റ് കാർഡുകൾ സ്വീകരിക്കാൻ പോകുന്ന വ്യാപാരികളുമായും ഇടപെടേണ്ടതുണ്ട് അതിനാൽ മറുവശത്തുള്ളവർ അതിനാൽ ഇവ ബഹുമുഖ വിപണികൾ പോലെയാണ് അതിനാൽ അടുത്തത് അടിസ്ഥാനപരമായി മൂല്യ ശൃംഖലയുടെ ഘടനയാണ് അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട മൂന്നാമത്തെ നിർമ്മാണ ബ്ലോക്കാണ് അതിനാൽ മൂല്യ ശൃംഖലയുടെ ഘടന അടിസ്ഥാനപരമായി ഇവയാണ് പ്രധാന ഉറവിടങ്ങളും മൂല്യ നിർദ്ദേശം സൃഷ്ടിക്കാൻ ഒരു ബിസിനസ്സിന് ആവശ്യമായ പ്രവർത്തനങ്ങളും അതിനാൽ ഈ മൂല്യ ശൃംഖല ഘടന ഉപയോഗിക്കുന്ന വിവിധ തരം വിഭവങ്ങളെയും നിർവ്വഹിക്കുന്ന വ്യത്യസ്ത പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു ഈ വിഭവങ്ങൾ ഭൌതിക വിഭവങ്ങൾ ബൌദ്ധിക വിഭവങ്ങൾ മാനവവിഭവശേഷി സാമ്പത്തിക വിഭവങ്ങൾ മുതലായവ ആകാം ഈ പ്രധാന ഉറവിടങ്ങൾ സ്വന്തമാക്കാം അല്ലെങ്കിൽ അവ കമ്പനിക്ക് പാട്ടത്തിന് നൽകാം അല്ലെങ്കിൽ വ്യത്യസ്ത പങ്കാളിയുടെ ബിസിനസ്സ് പങ്കാളികളിൽ നിന്ന് പോലും അവ സ്വന്തമാക്കാം അതിനാൽ ഇവ വ്യത്യസ്ത തരം വിഭവങ്ങളാണ് മൂല്യ ശൃംഖലയുടെ ഘടനയിൽ ഇവ വളരെ പ്രധാനമാണ് കൂടാതെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഉദാഹരണത്തിന് ഉൽപ്പാദനം പ്രശ്നം പരിഹരിക്കൽ നെറ്റ്വർക്ക് ആയി കണക്കാക്കുന്ന പ്ലാറ്റ്ഫോം മുതലായവ ഇവയാണ് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ അതിനാൽ ഇവ ഒരുമിച്ച് മൂല്യ ശൃംഖലയുടെ ഘടനയുടെ പ്രധാന പരിഗണനകളാണ് നാലാമത്തെ ബിൽഡിംഗ് ബ്ലോക്ക് അടിസ്ഥാനപരമായി വരുമാന ഉൽപ്പാദനവും മാർജിനുകളുമാണ് ഇത് ബിസിനസ്സിലെ ഓരോ ഉപഭോക്തൃ വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി സംസാരിക്കുന്നു ഈ വ്യത്യസ്ത വരുമാനങ്ങൾ രണ്ട് വ്യത്യസ്ത ഉറവിടങ്ങളിൽ നിന്ന് സ്ട്രീം ചെയ്യാവുന്നതാണ് അതിനാൽ ഒന്ന് ഇടപാട് വരുമാനവും ആവർത്തിച്ചുള്ള വരുമാനവുമാകാം അതിനാൽ ഇടപാട് വരുമാനം അർത്ഥമാക്കുന്നത് നടത്തുന്ന വ്യത്യസ്ത ഇടപാടുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്നാണ് ആവർത്തിച്ചുള്ള വരുമാനം എന്നതിനർത്ഥം ആവർത്തിച്ചുള്ള ഫാഷനിൽ ഉപഭോക്തൃ അടിത്തറയിൽ നിന്ന് വരുമാനം സൃഷ്ടിക്കുന്ന ഒരു വരുമാന മോഡൽ ഉണ്ടായിരിക്കാം അതിനാൽ ഈ വരുമാനം വ്യത്യസ്ത രീതികളിൽ ഉണ്ടാക്കാം ഈ വരുമാനം സബ്സ്ക്രിപ്ഷൻ ഫീസിൽ നിന്നോ ഉപയോഗ ഫീസിൽ നിന്നോ അല്ലെങ്കിൽ വാടകയ്ക്കോ പാട്ടത്തിൽ നിന്നോ ലഭിക്കുന്ന ഈ വ്യത്യസ്ത വിഭവങ്ങളിൽ നിന്നോ സേവനങ്ങളിൽ നിന്നോ ലൈസൻസിംഗ് ഫീസ് ബ്രോക്കറേജ് പരസ്യം മുതലായവ അതിനാൽ ഏത് വരുമാന മോഡലിലും പരിഗണിക്കാവുന്ന രണ്ട് വ്യത്യസ്ത തരം വിലനിർണ്ണയങ്ങളുണ്ട് ഒന്ന് ഫിക്സഡ് പ്രൈസിംഗ് മറ്റൊന്ന് ഡൈനാമിക് പ്രൈസിംഗ് അതിനാൽ ഇവയിൽ ഓരോന്നിനെയും കുറിച്ച് ഞങ്ങൾ കൂടുതൽ വിശദമായി മനസ്സിലാക്കേണ്ടതില്ല ഒരു IoT സജ്ജീകരിക്കുന്നതിന് ഈ വിവരങ്ങൾ എങ്ങനെ സഹായിക്കും എന്നതുപോലുള്ള കൂടുതൽ പ്രധാനപ്പെട്ട വശങ്ങൾ മനസിലാക്കാൻ ഇത്രയും വിവരങ്ങൾ മതിയാകുമെന്ന് ഞാൻ കരുതുന്നു പകരം ഒരു IIoT തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അത്തരം പരിതസ്ഥിതിയിൽ വരുമാനം ഉണ്ടാക്കുക മൂല്യ ശൃംഖലയിലെ മൂല്യ നെറ്റ്വർക്ക് സ്ഥാനത്തുള്ള സ്ഥാനമാണ് അടുത്ത ബിൽഡിംഗ് ബ്ലോക്ക് അതിനാൽ ഈ സ്ഥാനം അടിസ്ഥാനപരമായി വിതരണക്കാരുടെയും പങ്കാളികളുടെയും വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ആശ്രയിച്ചിരിക്കുന്നു ബിസിനസ്സ് മോഡലുകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും അപകടസാധ്യതകൾ കുറയ്ക്കുന്നതിനും വിഭവങ്ങൾ നേടുന്നതിനുമായി ഈ പങ്കാളിത്തങ്ങളും ഈ സഖ്യങ്ങളും സൃഷ്ടിക്കപ്പെടും അടുത്ത ബിൽഡിംഗ് ബ്ലോക്ക് മത്സര തന്ത്രമാണ് അതിനാൽ മത്സര തന്ത്രം അർത്ഥമാക്കുന്നത് ഒരു പ്രത്യേക കമ്പനിയുടെ വിപണി വിഭാഗത്തിൽ അതിന്റെ എതിരാളികളെക്കാൾ മത്സര നേട്ടം നേടാനുള്ള തന്ത്രമാണ് അതിനാൽ സാധാരണയായി ഒരു ബിസിനസ്സ് പരിഗണിക്കുന്ന മൂന്ന് വ്യത്യസ്ത തരം മത്സര തന്ത്രങ്ങളുണ്ട് ആദ്യത്തേത് നേതൃത്വത്തിന്റെ വിലയാണ് രണ്ടാമത്തേത് ഉപഭോക്താക്കൾക്ക് തനതായ എന്തെങ്കിലും കൊണ്ടുവരുന്നതിലൂടെയുള്ള വ്യത്യാസമാണ് മൂന്നാമത്തേത് ഒരു ചെറിയ മാർക്കറ്റ് സെഗ്മെന്റിലോ ഒരു പ്രത്യേക തരം മാർക്കറ്റ് സെഗ്മെന്റിലോ ഒരു മാച്ച് മാർക്കറ്റ് സെഗ്മെന്റിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒരു വലിയ വിപണിയാണെങ്കിൽ ഒരു ബഹുജന വിപണിയെ പരിഗണിക്കുന്നതിനേക്കാൾ അതിനാൽ ഏതൊരു ബിസിനസ്സിന്റെയും ഈ വ്യത്യസ്ത തരം ബിൽഡിംഗ് ബ്ലോക്കുകളെല്ലാം മനസ്സിലാക്കി നമുക്ക് ഇപ്പോൾ ഇവിടെ മാറാം എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സ് മോഡലുകൾ ആവശ്യമായി വരുന്നതെന്നും അവ പൊതുവെ IoT ക്ക് എങ്ങനെ പ്രധാനമാണെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം അതിനാൽ നമ്മൾ IoT നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ IoT യുടെ വരവ് അടിസ്ഥാനപരമായി ഒരു ബിസിനസ്സ് വീക്ഷണകോണിൽ നിന്ന് വ്യത്യസ്തമായ സവിശേഷതകൾക്ക് കാരണമായി ഇത് IoT യുടെ വരവോടെ വ്യത്യസ്ത ബിസിനസുകൾക്കുള്ള അവസരങ്ങൾ വർദ്ധിച്ചു IoT എന്നത് IoT ഇൻഫ്രാസ്ട്രക്ചറാണ് പ്രോസസുകളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് ആസ്തി വിനിയോഗം മെച്ചപ്പെടുത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും IoT യുടെ പല തരത്തിലുള്ള ഗുണങ്ങളുണ്ടെങ്കിലും ഒരു ബിസിനസ്സ് വീക്ഷണകോണിൽ നിന്ന് IoT സ്വീകരിക്കുന്നതിലും വ്യത്യസ്തമായ ബിസിനസ്സ് വെല്ലുവിളികൾ ഉണ്ട് ആദ്യത്തേത് അടിസ്ഥാനപരമായി വസ്തുക്കളുടെ വൈവിധ്യമാണ് ഇത് വളരെ പ്രധാനമാണ് കാരണം IoT ലോകത്ത് നമ്മൾ സംസാരിക്കുന്നത് വ്യത്യസ്ത വശങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചാണ് അടിസ്ഥാനപരമായി വിവിധ ഭൌതിക വസ്തുക്കളുടെ വൈവിധ്യം ബന്ധിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിനാൽ നമ്മൾ IoT ലോകത്ത് സംസാരിക്കുന്നത് വ്യത്യസ്ത ഭൌതിക വസ്തുക്കളുടെ ഇന്റർനെറ്റ് വർക്കിനെക്കുറിച്ചാണ് ഈ വ്യത്യസ്ത ഭൌതിക വസ്തുക്കൾക്ക് വ്യത്യസ്ത സെൻസറുകൾ ഉണ്ടായിരിക്കും കൂടാതെ ഈ സെൻസറുകൾ ഡാറ്റ നേടുകയും ചെയ്യും കൂടുതൽ പ്രോസസ്സിംഗിനായി ഈ ഡാറ്റ ഏതെങ്കിലും വിദൂര സെർവറിലേക്ക് അയയ്ക്കാൻ പോകുന്നു അടിസ്ഥാനപരമായി ഈ വ്യത്യസ്ത വസ്തുക്കൾ സാധാരണയായി IoT ലോകത്ത് അവ വ്യത്യസ്ത തരത്തിലുള്ളതും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതുമാണ് അതിനാൽ അടിസ്ഥാനപരമായി സാങ്കേതികമായി മാത്രം എന്നാൽ ഒരു ബിസിനസ്സ് വീക്ഷണകോണിൽ നിന്ന് വ്യത്യസ്ത വസ്തുക്കളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന്റെ വൈവിധ്യത്തിന്റെ ഈ വശം ഇത് ബിസിനസുകൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നു രണ്ടാമത്തെ കാര്യം പക്വതയില്ലായ്മയാണ് IoT IIoT എന്നിവയും പുതിയതാണ് കൂടാതെ IoT ബിസിനസിന് നൽകിയ പുതുമകളും അതിനാൽ ആ പ്രത്യേക വീക്ഷണകോണിൽ നിന്ന് പുതുമകൾ പുതിയതായതിനാൽ നവീകരണത്തിന്റെ കാര്യത്തിൽ ധാരാളം അപക്വതയുണ്ട് അത് ബിസിനസുകളിൽ ബിസിനസ്സിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഒരു പ്രത്യേക ബിസിനസ് ക്രമീകരണത്തിൽ IoT സ്വീകരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് പരിഗണിക്കുന്നതിന് വളരെ പ്രധാനമാണ് മൂന്നാമത്തേത് ബിസിനസ്സ് ആവാസവ്യവസ്ഥകൾ അവ ഐഒടി ലോകത്ത് രൂപപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അവ സാധാരണയായി ഈ IoT പരിതസ്ഥിതികളിൽ ഘടനാരഹിതമായ ബിസിനസ്സ് ആവാസവ്യവസ്ഥകളിൽ കണ്ടുമുട്ടുന്ന ഘടനയില്ലാത്ത ബിസിനസ്സ് ആവാസവ്യവസ്ഥയാണ് ഈ ഘടനാരാഹിത്യം ഞാൻ തുടക്കത്തിൽ തന്നെ സംസാരിച്ച ഈ വൈവിധ്യം മൂലമാണ് ഉണ്ടാകുന്നത് വൈവിധ്യമുണ്ട് അപക്വതയുണ്ട് അതിന്റെ ഫലമായി ഈ ബിസിനസ്സ് ആവാസവ്യവസ്ഥകൾ സാധാരണയായി ഘടനാരഹിതമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഒരു യഥാർത്ഥ ഐഒടി ലോകത്തിലെ ഒരു ബിസിനസ്സിനെക്കുറിച്ചല്ല വ്യത്യസ്ത ബിസിനസ്സ് സെഗ്മെന്റുകളെ ബന്ധിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഈ വ്യത്യസ്ത ബിസിനസ്സ് സെഗ്മെന്റുകൾ എല്ലാം അല്ല അവയെല്ലാം ഇനിപ്പറയുന്ന ഒരു പ്രത്യേക ബിസിനസ്സ് മോഡലിൽ പ്രവർത്തിക്കുന്നില്ല അതിനാലാണ് ഈ ഘടനാരഹിതമായ പെരുമാറ്റം ഘടനാരഹിതമായ ഈ സ്വത്ത് ഇത് ഈ ബിസിനസ്സ് ആവാസവ്യവസ്ഥകളിൽ ഉണ്ടാകുന്നത് അതിനാൽ ഈ IoT ബിസിനസ്സ് മോഡലുകൾ വ്യത്യസ്ത ആവശ്യകതകളെ അഭിസംബോധന ചെയ്യണം ഇത് കമ്പനി തലത്തിൽ നിന്ന് ഇക്കോസിസ്റ്റം തലത്തിലേക്ക് വ്യാപ്തി വർദ്ധിപ്പിക്കും യഥാർത്ഥത്തിൽ ഞാൻ മുമ്പത്തെ സ്ലൈഡിൽ സംസാരിച്ചത് ഇതാണ് അതിനാൽ ഞങ്ങൾ സംസാരിക്കുന്നത് ഒറ്റ കമ്പനികളെക്കുറിച്ചല്ല ഒരു കമ്പനിയെ സേവിക്കുന്ന IoT നെക്കുറിച്ചല്ല അതിനാൽ ഞങ്ങൾ ഒരു ബിസിനസ്സ് ആവാസവ്യവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവിടെ നിരവധി കമ്പനികൾ വ്യത്യസ്തവും വ്യത്യസ്തവുമായ റോളുകൾ വഹിക്കാൻ പോകുന്നു അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യകതയാണ് കമ്പനികൾ IoT യ്ക്കായി ഒരു ബിസിനസ്സ് മോഡൽ കൊണ്ടുവരണമെങ്കിൽ വ്യവസായം ഇത് വളരെ ഗൌരവമായി പരിഗണിക്കണം IoT പരിതസ്ഥിതികൾക്കായുള്ള ബിസിനസ്സ് മോഡലുകളെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ പരിഗണന രൂപകൽപനയ്ക്കും സങ്കീർണ്ണമായ മൂല്യങ്ങളുടെ ദൃശ്യവൽക്കരണത്തിനും പങ്കാളിത്ത ശൃംഖലയിലെ മൂല്യ സ്ട്രീമുകൾ ആവശ്യമാണ് എന്നതാണ് അതിനാൽ വ്യത്യസ്ത പങ്കാളികൾ ഉണ്ട് ഒരു ബിസിനസ്സ് വീക്ഷണകോണിൽ നിന്ന് ഈ വ്യത്യസ്ത പങ്കാളികൾക്ക് വ്യത്യസ്ത ആവശ്യകതകളുണ്ട് അതിനാൽ ഈ സ്റ്റേക്ക്ഹോൾഡർ നെറ്റ്വർക്കിൽ നിന്ന് സൃഷ്ടിക്കുന്ന ഈ സങ്കീർണ്ണമായ മൂല്യ സ്ട്രീമിന്റെ രൂപകൽപ്പനയ്ക്കും ദൃശ്യവൽക്കരണത്തിനും പിന്തുണ ഉണ്ടായിരിക്കണം അടുത്തത് അടിസ്ഥാനപരമായി ഉപയോക്താക്കൾ അന്തിമ ഉപയോക്താക്കൾ ഉപഭോക്താക്കൾ ബിസിനസ്സിന് വ്യത്യസ്ത ധാരണാപത്രങ്ങൾ ഉള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ധാരണകൾ ഉള്ള വ്യത്യസ്ത പങ്കാളികൾ എന്നിവ ഉൾപ്പെടുന്ന എല്ലാ പങ്കാളികളുടെയും മൂല്യനിർണ്ണയത്തിന്റെ വ്യക്തമായ പരിഗണനയാണ് ബിസിനസുകൾ അവസാനത്തേത് അടിസ്ഥാനപരമായി സൃഷ്ടിക്കപ്പെടുന്ന യഥാർത്ഥ അവസരത്തിനകത്തും അതിനപ്പുറവും ഒരു ആസ്തിയായി ഡാറ്റയെ പരിഗണിക്കുന്നതാണ് അതിനാൽ ഒരു ബിസിനസ്സ് ലോകത്ത് ഐഒടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ധാരാളം ഡാറ്റയെക്കുറിച്ചാണ് സൃഷ്ടിക്കപ്പെടുന്ന ഡാറ്റയെക്കുറിച്ചാണ് ഐഒടിയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിഗണനയാണ് ഈ ഡാറ്റ വളരെ പ്രധാനമാണ് കാരണം ഇത് കമ്പനിയിൽ ഉള്ള സ്ഥിരമായ ഇൻഫ്രാസ്ട്രക്ചർ അസറ്റുകൾക്ക് അപ്പുറത്തുള്ള ഒരു ആസ്തിയായി വർത്തിക്കുന്നു അതിനാൽ ഈ ഡാറ്റ IoT ഡാറ്റ കമ്പനിക്കുള്ളിലെ വളരെ പ്രധാനപ്പെട്ട ആസ്തിയാണ് ഇത് കമ്പനിക്കുള്ളിൽ മാത്രമല്ല ഇത് ഒരു അസറ്റാണ് മാത്രമല്ല കമ്പനിക്കുള്ളിൽ സൃഷ്ടിക്കപ്പെടുന്ന യഥാർത്ഥ അവസരത്തിനും അപ്പുറമാണ് അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഡാറ്റ മറ്റ് ഓർഗനൈസേഷനുകൾക്കോ മറ്റ് പങ്കാളി ഓർഗനൈസേഷനുകൾക്കോ അല്ലെങ്കിൽ കമ്പനിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തിനുള്ളിലെ മറ്റ് ഓർഗനൈസേഷനുകൾക്കോ പോലും ഒരു അസറ്റായി വർത്തിക്കും അതായത് രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ പ്രദേശത്തിനകത്തും പുറത്തും പ്രദേശം അതിനാൽ ഇതിന് പരിധികളൊന്നുമില്ല ഈ ഡാറ്റ കമ്പനിക്ക് മാറ്റമില്ലാത്ത ആസ്തിയാണ് അത് ഡാറ്റ ശേഖരിച്ച ഈ ഡാറ്റ സൃഷ്ടിച്ചു കൂടാതെ മറ്റ് കമ്പനികൾക്കും അതിനാൽ ഐഒടിക്ക് വ്യത്യസ്ത ബിസിനസ്സ് മോഡലുകൾ ഉണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സബ്സ്ക്രിപ്ഷൻ മോഡലാണ് അതിനാൽ സബ്സ്ക്രിപ്ഷൻ മോഡൽ സോ സബ്സ്ക്രിപ്ഷൻ മോഡൽ എന്നതിന്റെ അർത്ഥമെന്താണെന്ന് ഞങ്ങൾ അതിലൂടെ പോകും അടുത്തത് ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള മാതൃകയാണ് അസറ്റ് ഷെയറിംഗ് മോഡൽ കൂടാതെ IoT ആസ് എ സർവീസ് പ്ലസ് എന്നിവയും IoT യിൽ ഉപയോഗിക്കുന്നതിന് സാഹിത്യത്തിൽ ഉള്ള മറ്റ് ചില മോഡലുകളിലൂടെയും ഞാൻ പോകുകയാണ് ആദ്യത്തേത് IoT യുടെ സബ്സ്ക്രിപ്ഷൻ മോഡലാണ് അതിനാൽ പ്രധാനമായും സംഭവിക്കുന്നത് IoT ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്ന ഡാറ്റയാണ് ഈ ഡാറ്റ ഉപഭോഗം ചെയ്യാവുന്നവയാണ് അവ അളക്കാൻ കഴിയും അവ അളക്കാവുന്നവയാണ് അവ ആവർത്തിക്കാവുന്നവയാണ് അതിനാൽ അടിസ്ഥാനപരമായി ഈ ഡാറ്റയാണ് ജനറേറ്റ് ചെയ്യുന്നത് ഇതിന് വ്യത്യസ്ത വശങ്ങളുണ്ട് ഓർഗനൈസേഷനായി ആവർത്തിച്ചുള്ള വരുമാനം സൃഷ്ടിക്കാനും ഇത് പ്രാപ്തമാണ് അതിനാൽ ഇത്തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ മോഡൽ ഉപയോഗിക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഒറ്റത്തവണ ചാർജ് ഈടാക്കുന്നതിനെക്കുറിച്ചല്ല നിങ്ങൾ സംസാരിക്കുന്നത് എന്നാൽ ഈ ഉപഭോക്താക്കൾക്ക് ചില തരത്തിലുള്ള സേവനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ കഴിയും കൂടാതെ വാഗ്ദാനം ചെയ്യുന്ന സബ്സ്ക്രിപ്ഷനെ അടിസ്ഥാനമാക്കി അവ ഈടാക്കാം അതിനാൽ അടിസ്ഥാനപരമായി IoT സേവനങ്ങൾ ഉപഭോക്താക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നു ഉപഭോക്താവ് സബ്സ്ക്രൈബുചെയ്ത സബ്സ്ക്രിപ്ഷന്റെ യൂണിറ്റുകളും ഉപയോഗ യൂണിറ്റുകളും അടിസ്ഥാനമാക്കി അവരിൽ നിന്ന് നിരക്ക് ഈടാക്കും അതിനാൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾ ഒറ്റത്തവണ ചാർജിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത് മറ്റ് തരത്തിലുള്ള ബിസിനസുകൾക്കായി ഇതിനകം നിലവിലുള്ള ഈ ഒറ്റത്തവണ ചാർജിംഗ് സംവിധാനത്തിനപ്പുറം ഞങ്ങൾ പോകുന്നു കൂടാതെ ആനുകാലിക ഉപയോഗത്തെ അടിസ്ഥാനമാക്കി ഒരു പേപ്പർ ഉപയോഗ രീതിയിലുള്ള ഒരു പതിവ് ഉപയോഗത്തിൽ ഫീസ് ഉപഭോക്താവിൽ നിന്ന് ഈടാക്കാൻ പോകുന്നു അതിനാൽ സബ്സ്ക്രിപ്ഷൻ മോഡലിന്റെ വ്യത്യസ്ത ഗുണങ്ങളുണ്ട് ഇത് പ്രവചിക്കാവുന്ന തരത്തിലുള്ള മോഡലാണ് അവിടെ നിങ്ങൾക്ക് എത്ര വരുമാനം ലഭിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയും പണമടച്ചുള്ള അപ്ഡേറ്റുകൾ നൽകുന്നതിലൂടെയോ ഫ്രീമിയം മോഡൽ നടപ്പിലാക്കുന്നതിലൂടെയോ ഉൽപ്പന്നം ധനസമ്പാദനം നടത്താം അതിനാൽ ഫ്രീമിയം അർത്ഥമാക്കുന്നത് അടിസ്ഥാന സേവനങ്ങളുടെ ചില തലത്തിലുള്ള സേവനങ്ങൾ പോലെ അവ ഉപഭോക്താക്കൾക്ക് സൌജന്യമാക്കാനും പ്രീമിയം സേവനങ്ങൾ ചാർജ് ചെയ്യാനും കഴിയും ആവർത്തിച്ചുള്ള പോസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ഇടപെടൽ കാരണം ഉപഭോക്താക്കളുമായി സജീവമായ ബന്ധം വളർത്തിയെടുക്കാൻ ബിസിനസുകൾക്ക് കഴിയുന്നു എന്നതാണ് മറ്റ് നേട്ടങ്ങൾ ഇത്തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ മോഡൽ ഉപയോഗിക്കുന്നതിന് ബിസിനസുകൾക്ക് അവരുടെ ഉപഭോക്താക്കളെ കുറിച്ച് കൂടുതലറിയാനും കഴിയും ഉപഭോക്താക്കളിൽ നിന്ന് പിന്നിലേക്ക് ഫീഡ്ബാക്ക് നൽകാനും അവർക്ക് കഴിയും ഉപഭോക്താക്കൾക്ക് ബിസിനസുകൾക്ക് ഫീഡ്ബാക്ക് നൽകാൻ കഴിയും അതുവഴി മെച്ചപ്പെട്ട സേവനങ്ങൾ ബിസിനസിന് നൽകാനാകും അതിനാൽ വ്യത്യസ്ത വെല്ലുവിളികളും ഉണ്ട് അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കിയ നേട്ടങ്ങൾ സബ്സ്ക്രിപ്ഷൻ മോഡലിന്റെ ഉപയോഗത്തിന് പിന്നിൽ വ്യത്യസ്ത വെല്ലുവിളികളുണ്ട് അതിനാൽ ഉപഭോക്തൃ മാനേജുമെന്റ് ഓട്ടോമാറ്റിക് ഇൻവോയ്സിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കാരണം അത് ആവശ്യമാണ് കൂടാതെ വ്യത്യസ്ത തരം ഉപയോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള വ്യത്യസ്ത തരങ്ങൾ നിങ്ങൾ ഉപഭോക്താക്കളെ സ്വയമേവ ഇൻവോയ്സ് ചെയ്യണം അതിനാൽ ഓട്ടോമാറ്റിക് ഇൻവോയ്സിംഗ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ മാനേജ്മെന്റ് വിദഗ്ദ്ധ തൊഴിലാളികളുടെ ആവശ്യകത പതിവ് അപ്ഡേറ്റുകളുടെ ആവശ്യകത ഇവ വ്യത്യസ്ത ആവശ്യകതകളാണ് അവ ബിസിനസുകൾക്ക് വ്യത്യസ്ത വെല്ലുവിളികളായി ഉയർത്തുന്നു അതിനാൽ ഇത്തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ മോഡലിന്റെ ഉപയോഗത്തിലൂടെ പോകുന്ന ബിസിനസുകൾ ഈ വെല്ലുവിളികൾ പരിഗണിക്കേണ്ടതുണ്ട് അടുത്തത് ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള മോഡലാണ് അവിടെ ബിസിനസുകൾ ഉപഭോക്താക്കൾക്ക് പേയ്മെന്റ് ഫലങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നമോ സേവനമോ നൽകുന്ന ആനുകൂല്യങ്ങൾ നൽകുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഇത് ഒരു പേ പെർ ഫലം തരത്തിലുള്ള മോഡൽ പേപ്പർ ഫലമാണ് അതിനാൽ ഫലത്തെ അടിസ്ഥാനമാക്കി ഉപഭോക്താവ് ഫലങ്ങളെ അടിസ്ഥാനമാക്കി പണം നൽകുന്നു അതിനാൽ ഉടമസ്ഥാവകാശത്തിന്റെയും പരിപാലനത്തിന്റെയും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഉപഭോക്താവ് അടിസ്ഥാനപരമായി ഒഴിവാക്കപ്പെടുന്നു പരിഹാരങ്ങൾ ധനസമ്പാദനത്തിനായി ബിസിനസുകളെയും അവരുടെ ഉപഭോക്താക്കളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു അതിനാൽ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള മോഡലിന്റെ വ്യത്യസ്ത സവിശേഷതകളിൽ ചിലതാണ് ഇവ അതിനാൽ സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കിയുള്ള മോഡൽ പോലെ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള മോഡലിനും പ്രത്യേക പ്രത്യേക ഗുണങ്ങളുണ്ട് ഈ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള മോഡൽ ഇത് ലാഭത്തിന്റെ വർദ്ധനവ് കുറഞ്ഞ ചർച്ചാ ചക്രം ഉപഭോക്താവുമായുള്ള ചർച്ചാ ചക്രം എന്നിവയിലേക്ക് നയിക്കുന്നു അതിനാൽ ഉപഭോക്താക്കൾക്കും ബിസിനസ്സിനും ഇടയിൽ ഈ ചർച്ചകൾ നടക്കുന്നു ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള മോഡൽ അടിസ്ഥാനപരമായി അതിനെ കുറയ്ക്കുന്നു മൂന്നാമത്തേത് ഉയർന്ന ഉപഭോക്തൃ സംതൃപ്തി വർദ്ധിച്ച ഉപഭോക്തൃ സംതൃപ്തി ബിസിനസ്സിലെ മൊത്തത്തിലുള്ള അപകടസാധ്യതകൾ കുറയ്ക്കുന്നതിന് എന്നെ അങ്ങനെ വിളിക്കാം വെണ്ടറുടെയും ഉപഭോക്താവിന്റെയും മൂല്യനിർണ്ണയത്തിന്റെ മികച്ച വിന്യാസം അതിനാൽ ഇവ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള മോഡലിന്റെ വ്യത്യസ്ത ഗുണങ്ങളാണ് സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കിയുള്ള മോഡലിന് സമാനമായി വ്യത്യസ്ത വെല്ലുവിളികളും ഉണ്ട് ആരെങ്കിലും ഒരു ബിസിനസ്സ് സ്വീകരിക്കുകയാണെങ്കിൽ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള മോഡൽ വ്യത്യസ്ത വെല്ലുവിളികൾ ഉണ്ട് വിലയുടെ സ്റ്റാൻഡേർഡൈസേഷനുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ പുതിയ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നയങ്ങൾ പ്രക്രിയകൾ സുരക്ഷിതവും വിശ്വസനീയവുമായ ഫല വിതരണം തെളിയിക്കപ്പെട്ട ബിസിനസ്സ് മോഡലുകളുടെ അഭാവം മുതലായവ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള മോഡലിന്റെ ഉപയോഗത്തിന് പിന്നിലെ വ്യത്യസ്ത വെല്ലുവിളികൾ ഇവയാണ് ബിസിനസുകൾ ഫലത്തിൽ ഏകീകരിക്കുന്ന അസറ്റ് പങ്കിടൽ മോഡലാണ് അടുത്തത് ഒപ്പം ഒന്നിലധികം ഉപഭോക്താക്കൾക്കിടയിലോ മറ്റ് ബിസിനസ്സ് സ്ഥാപനങ്ങൾക്കിടയിലോ വരുമാനം കൈമാറ്റം ചെയ്യുന്നതിനായി അവരുടെ IoT പ്രാപ്തമാക്കിയ അസറ്റുകൾ പങ്കിടുക ഉദാഹരണത്തിന് ട്രാക്ടറുകളുടെ ഉപയോഗം നമ്മൾ കണ്ടതുപോലെയാണ് ഇത് അതിനാൽ ആരോ ട്രാക്ടർ സ്വന്തമാക്കി ആ ട്രാക്ടർ മറ്റ് ഉപഭോക്താക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വരുമാനത്തിന് പകരമായി നൽകാം അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഒരുതരം അസറ്റ് പങ്കിടൽ മോഡലാണ് ഇത് ഒരു അസറ്റ് പങ്കിടൽ മോഡലിന്റെ ഉദാഹരണമാണ് അതിനാൽ അവരുടെ ഉപഭോക്താക്കൾക്ക് അടിസ്ഥാനപരമായി വരുമാനം ഈടാക്കുന്നത് സമയമോ ഉപയോഗത്തിന്റെ സ്വഭാവമോ ട്രാക്ടർ എത്രത്തോളം വായ്പ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ വ്യവസായം മറ്റേതെങ്കിലും യന്ത്രസാമഗ്രികൾ മറ്റൊരു ഉപഭോക്താവിന് കടം നൽകി അതിനാൽ ദൈർഘ്യവും ഉപയോഗത്തിന്റെ സ്വഭാവവും അടിസ്ഥാനമാക്കി അവ ഈടാക്കാം വരുമാനം ഈടാക്കാം ഉപഭോക്താവ് ഉപയോഗിക്കുന്ന മെഷിനറിയുടെ വ്യത്യസ്ത വശങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഉപയോഗത്തിന്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി ഉപഭോക്താവിൽ നിന്ന് വരുമാനം എങ്ങനെ ഈടാക്കാം എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണിത് അതിനാൽ അടിസ്ഥാനപരമായി പ്രവർത്തനരഹിതമായ സമയം കുറയ്ക്കുകയും അസറ്റുകളുടെ വിനിയോഗം പരമാവധിയാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം അതിനാൽ ഇത് വളരെ പ്രയോജനകരമാണ് കാരണം ഉപഭോക്താവാണെങ്കിൽ ഒരു ബിസിനസ്സിന് ഒരു പ്രത്യേക യന്ത്രസാമഗ്രികൾ ഉണ്ടെങ്കിൽ ബിസിനസ്സ് അവരുടെ സ്വന്തം ആവശ്യത്തിനായി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു നിശ്ചിത സമയത്തേക്ക് യന്ത്രം ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് കൂടാതെ മറ്റ് സമയങ്ങളിൽ അത് ഉപയോഗിക്കാതെ തന്നെ കിടക്കും അസറ്റ് ഷെയറിംഗ് മോഡൽ ഉപയോഗിക്കുന്നതിന് പകരം മറ്റ് ആളുകൾക്ക് അതേ യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് കൂടാതെ ഉപയോഗിക്കുന്ന സമയം യന്ത്രസാമഗ്രികളുടെ ഉപയോഗത്തിന്റെ സ്വഭാവം എന്നിവയെ അടിസ്ഥാനമാക്കി ചാർജ്ജ് ചെയ്ത തുകയിൽ അവ ഈടാക്കാം അതിനാൽ ഉദാഹരണത്തിന് IoT യിലെ സ്മാർട്ട് എനർജി സ്മാർട്ട് എനർജി ഇത് ആസ്തി പങ്കിടൽ മോഡലിന്റെ ഒരു ഉദാഹരണമാണ് അതിനാൽ ആർക്കെങ്കിലും ഊർജ്ജ ഉൽപ്പാദന ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഉത്പാദിപ്പിക്കുന്ന ഊർജ്ജം വ്യത്യസ്ത ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാം അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഒരു ഉദാഹരണമാണ് സ്മാർട്ട് എനർജി എന്നത് അസറ്റ് പങ്കിടൽ മോഡലിന്റെ ഒരു ഉദാഹരണമാണ് അതിനാൽ ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്ത മുൻ മോഡലുകൾ പോലെ അസറ്റ് പങ്കിടൽ മോഡലിനും വ്യത്യസ്ത ഗുണങ്ങളുണ്ട് ഉദാഹരണത്തിന് ലാഭ മാർജിൻ വർദ്ധിപ്പിക്കുക ഉപഭോക്താവിന്റെ വില കുറയ്ക്കുക ബിസിനസിന്റെ സ്കേലബിളിറ്റിയിൽ നിന്ന് ലഘൂകരിക്കുക വിഭവങ്ങളുടെ പാഴാക്കൽ കുറയ്ക്കുക അതിനാൽ അസറ്റ് ഷെയറിംഗ് മോഡലിന്റെ ഉപയോഗത്തിന്റെ ചില വ്യത്യസ്ത ഗുണങ്ങൾ ഇവയാണ് വ്യത്യസ്ത വെല്ലുവിളികളും ഉണ്ട് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന സുരക്ഷയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ അതിനാൽ നിങ്ങൾ ഈ വ്യത്യസ്ത അസറ്റുകൾ മറ്റ് ഉപയോക്താക്കൾക്ക് കടം നൽകിയാൽ ഉൽപ്പന്നങ്ങളുടെ ഭൌതിക സുരക്ഷയുടെ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങളുടെ ഭൌതിക സുരക്ഷ ഇവ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് ഇവയുടെ വശങ്ങളുടെ സുരക്ഷ അവ വളരെ പ്രധാനമാണ് മറ്റ് വെല്ലുവിളികൾ ഉദാഹരണത്തിന് വ്യത്യസ്ത ബിസിനസ്സ് സ്ഥാപനങ്ങൾ തമ്മിലുള്ള പരസ്പര ക്രമീകരണങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട് അസറ്റ് കോൺഫിഗറേഷൻ വളരെ പ്രധാനമാണ് കൂടാതെ ഉപകരണ സമന്വയം ഈ വ്യത്യസ്ത ഉപകരണങ്ങൾ തമ്മിലുള്ള സിനർജികൾ എന്നിവ അസറ്റിൽ വളരെ പ്രധാനമാണ് പങ്കിടൽ മാതൃക അടുത്തത് IoT ആസ് എ സർവീസ് ആണ് അതിനാൽ IoT ആസ് എ സർവീസ് നെ കുറിച്ച് ചില സാഹിത്യങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടെത്തും അതിനാൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ ഉപഭോക്താക്കൾക്ക് IoT പ്രാപ്തമാക്കിയ ഉൽപ്പന്നങ്ങൾ പാട്ടത്തിന് നൽകുന്ന ബിസിനസുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് തുടർന്ന് പാട്ടത്തിനെടുത്ത IoT ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് വരുമാനം നേടുന്നു അതിനാൽ ഈ ഉൽപ്പന്നങ്ങൾ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ വിവരങ്ങൾ അല്ലെങ്കിൽ ഡാറ്റ ഡാറ്റയുടെ വിശകലനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ഫലങ്ങൾ എന്നിവ എന്തും ആകാം അടിസ്ഥാനപരമായി IoT ആസ് എ സർവീസ് മോഡലിൽ എന്തും ഒരു ഉൽപ്പന്നമാകാം ജനറേറ്റുചെയ്യുന്ന ഡാറ്റയുടെ അളവ് ഉപയോഗിക്കുന്ന വ്യത്യസ്ത വിഭവങ്ങളുടെ അളവ് വാഗ്ദാനം ചെയ്യുന്ന വിഭവങ്ങളുടെ ഗുണനിലവാരം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ മോഡലിൽ വരുമാനം സൃഷ്ടിക്കുന്നത് അതിനാൽ ഈ വ്യത്യസ്ത വശങ്ങളെല്ലാം IoT ആസ് എ സർവീസ് ൽ വരുമാന മാതൃക കൊണ്ടുവരാൻ സഹായിക്കും അതിനാൽ IIT ഖരഗ്പൂരിലെ ഞങ്ങളുടെ ഗവേഷണ ഗ്രൂപ്പായ SWAN ഗവേഷണ ഗ്രൂപ്പായ ഒരു സേവനമെന്ന നിലയിൽ സെൻസർ സെൻസറുകൾ ഒരു സേവനമായി നൽകുന്നതിന് ഞങ്ങൾ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് അതിനാൽ ഇത് അടിസ്ഥാനപരമായി IoT ആസ് എ സർവീസ് ന്റെ ഒരു പ്രത്യേക ഉദാഹരണമാണ് IoT ലോകത്ത് ഇത് വളരെ പ്രധാനമാണ് IoT ലോകത്ത് ഇത്തരത്തിലുള്ള ബിസിനസ്സ് മോഡൽ വളരെ പ്രധാനമാണ് അതിനാൽ IoT ആസ് എ സർവീസ് ന്റെ വ്യത്യസ്ത ഗുണങ്ങൾ ഇതാ ഉദാഹരണത്തിന് കുറഞ്ഞ ലൈസൻസിംഗ് ചെലവുകൾ ആസൂത്രിതമായ നവീകരണങ്ങളിൽ നിന്നുള്ള വരുമാനം വ്യത്യസ്ത മൂല്യ നിർദ്ദേശങ്ങളുടെ മികച്ച വിന്യാസം വെണ്ടർമാരുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളും പ്രതിരോധ പരിപാലനവും മെച്ചപ്പെട്ട ഉപഭോക്തൃ ബന്ധങ്ങൾ ഉപഭോക്തൃ ബന്ധങ്ങൾ അതിനാൽ ഇവ IoT ആസ് എ സർവീസ് ന്റെ വ്യത്യസ്ത ഗുണങ്ങളാണ് അതിനാൽ മറുവശത്ത് വ്യത്യസ്ത വെല്ലുവിളികളും ഉണ്ട് ഉൽപ്പന്ന അനുയോജ്യത ഡാറ്റ കൃത്യത നിലനിർത്തൽ ഡാറ്റയുടെ സുരക്ഷ ഇവ IoT ആസ് എ സർവീസ് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വെല്ലുവിളികളാണ് അതിനാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ അതിനാൽ ഈ വ്യത്യസ്ത ബിസിനസ്സ് മോഡലുകൾക്കപ്പുറമുണ്ട് സാഹിത്യത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളതും ലഭ്യമാണ് കൂടാതെ വേറെയും വ്യത്യസ്ത ബിസിനസ്സ് മോഡലുകൾ ഉണ്ട് അതിനാൽ ഞാൻ ചിലതിനെക്കുറിച്ച് സംസാരിക്കട്ടെ അതിനാൽ മറ്റൊരു ഉൽപ്പന്നം വിൽക്കുന്നതിനുള്ള പ്രോക്സി എന്ന നിലയിൽ IoT ഉൽപ്പന്നങ്ങൾ മറ്റൊരു തരത്തിലുള്ള ബിസിനസ്സ് മോഡലാണ് അതിനാൽ IoT ഉൽപ്പന്നങ്ങൾ മറ്റൊരു ഉൽപ്പന്നം വിൽക്കാൻ ഒരു പ്രോക്സി ആയി ഉപയോഗിക്കാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ IoT ഉൽപ്പന്നങ്ങൾ ചിലവ് വിലയ്ക്കോ മറ്റ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള നഷ്ടത്തിലോ വിൽക്കുന്നു ഉദാഹരണത്തിന് IoT ഉപകരണങ്ങൾക്ക് ഉൽപ്പന്നങ്ങളുടെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനും അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്താനും കഴിയും റീഫില്ലുകൾ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നിർമ്മാതാക്കൾക്ക് ഇവ ഉപയോഗിക്കാം അതിനാൽ ഇത് IoT അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഒരു തരം മോഡലാണ് ഡാറ്റ ധനസമ്പാദനത്തിനുള്ള ഒരു വാഹനമായി IoT ഉൽപ്പന്നങ്ങൾ IoT അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ IoT അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന മറ്റൊരു തരം മോഡലാണിത് അതിനാൽ ഇത് IoT ലോകത്ത് വളരെ ആകർഷകമായ ഒരു തരം ബിസിനസ്സ് മോഡലാണ് അതിനാൽ ഐഒടി പ്രാപ്തമാക്കിയ ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ നൽകുമ്പോൾ ഉപയോക്താക്കളിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്നു വരുമാനം നേടുന്നതിനായി ഈ ഡാറ്റ ബിസിനസുകൾ മൂന്നാം കക്ഷി ബിസിനസുകൾക്ക് വിൽക്കുന്നു ആവശ്യാനുസരണം ഡാറ്റ പ്രോസസ്സ് ചെയ്യുകയും സമാഹരിക്കുകയും ചെയ്യുന്നു കൂടാതെ ഉപഭോക്താക്കൾക്ക് അവരുടെ ഡാറ്റയുടെ ഉപയോഗത്തെക്കുറിച്ചും സ്വകാര്യതാ നയങ്ങളെക്കുറിച്ചും മുൻകൂട്ടി അവബോധം നൽകേണ്ടതുണ്ട് അവർ ദത്തെടുക്കുകയാണെങ്കിൽ ബിസിനസ്സ് സ്വീകരിക്കുകയാണെങ്കിൽ IoT ലോകത്ത് ഇത്തരത്തിലുള്ള ബിസിനസ്സ് മോഡൽ അതിനാൽ IoT യുടെ ബിസിനസ്സ് വശങ്ങളുടെ ആദ്യ ഭാഗത്തിന്റെ അവസാനത്തിൽ ഞങ്ങൾ എത്തിച്ചേരുന്നു അതിനാൽ ഞങ്ങൾ തുടക്കത്തിൽ വിവിധ ബിസിനസ്സ് മോഡലുകളിലൂടെ കടന്നുപോയിട്ടുണ്ട് അത് ഐഒടിയിൽ മാത്രമല്ല സാഹിത്യത്തിൽ ലഭ്യമായ വ്യത്യസ്ത തരം ബിസിനസ്സ് മോഡലുകളിലൂടെയാണ് എന്നാൽ ഏത് തരത്തിലുള്ള ബിസിനസ്സ് മോഡലും സാഹിത്യം ലഭ്യമാണ് അതിനുശേഷം സമൂഹത്തിൽ ആകർഷകമായ IoT നിർദ്ദിഷ്ട ബിസിനസ്സ് മോഡലുകളിലൂടെ ഞങ്ങൾ കടന്നുപോയി ചില ബിസിനസുകൾ ഇതിനകം തന്നെ IoT യ്ക്കായി ഈ വ്യത്യസ്ത നിർദ്ദിഷ്ട ബിസിനസ്സ് മോഡലുകൾ സ്വീകരിക്കുന്നു IoT യ്ക്കായുള്ള ഈ ഓരോ ബിസിനസ്സ് മോഡലുകളുടെയും സവിശേഷതകൾ മാത്രമല്ല IoT യ്ക്കായി ഈ വ്യത്യസ്ത ബിസിനസ്സ് മോഡലുകൾ സ്വീകരിക്കുന്നതിലെ വ്യത്യസ്ത നേട്ടങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും ഞങ്ങൾ കടന്നുപോയി അതിനാൽ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ചില പരാമർശങ്ങൾ ഇവയാണ് അതിനാൽ ഇവയിലേതെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യത്യസ്ത റഫറൻസിലൂടെ പോകാം പക്ഷേ IoT IIoT അതുപോലെ ഇൻഡസ്ട്രി 4 0 എന്നിവ മനസ്സിലാക്കുന്നതിന്റെ സമഗ്രമായ വീക്ഷണകോണിൽ നിന്ന് അതിന്റെ പിന്നിലെ ആശയങ്ങൾ IIoT യുടെ ബിസിനസ്സ് വശങ്ങൾ മനസ്സിലാക്കാൻ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതിയെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ കവർ ചെയ്തത് ഐഒടിയുടെ ബിസിനസ്സ് മോഡലുകളും ബിസിനസ്സ് വശങ്ങളും മാത്രമാണ് അടുത്ത പ്രഭാഷണത്തിൽ IIoT Industrial IoT എന്നിവയ്ക്കായുള്ള ബിസിനസ്സ് മോഡലുകളും മറ്റ് അനുബന്ധ വശങ്ങളും ഞങ്ങൾ പരിശോധിക്കാൻ പോകുന്നു അതിനാൽ അവിടെ ഞങ്ങൾ അൽപ്പം വൈവിധ്യവൽക്കരിക്കും കൂടാതെ IIoT യുടെ നിർദ്ദിഷ്ട പ്രശ്നങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സ് വശങ്ങളെക്കുറിച്ചും ഞങ്ങൾ സംസാരിക്കും